നമസ്കാരം നമ്മുടെ NPTEL കോഴ്സ് മെക്കനോബയോളജിയുടെ ആമുഖത്തിന്റെ പതിനേഴാമത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആക്റ്റിൻ വളർച്ചയുടെ ചലനാത്മകതയെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു നമ്മൾ ആക്റ്റിൻ പോളിമറൈസേഷനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആക്റ്റിൻ പോളിമറൈസേഷനുമായി ബന്ധപ്പെട്ട ഫോഴ്സുകളെ Forces നിർണയിക്കുന്നതിനെ പറ്റിയും ഫോഴ്സ് വെലോസിറ്റി ബന്ധങ്ങളുടെ സ്വഭാവത്തെയും സ്റ്റാൾ ഫോഴ്സിന്റെ വ്യാപ്തി എങ്ങനെ കണക്കാക്കാമെന്നും മനസിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയായിരുന്നു പരീക്ഷണാർത്ഥം സ്റ്റാൾ ഫോഴ്സ് കണക്കാക്കുന്നതിന് ഞാൻ AFM ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം നൽകി അവിടെ ടിപ്പ് അഥവാ പ്രോബ് സെൽ ചലനത്തിന്റെ ദിശയ്ക്ക് ലംബമായി ക്രമീകരിച്ചിരിക്കുന്നു അതിന്റെ പരിണതഫലമായി നിങ്ങൾക്ക് ഡിഫ്ളെക്ഷനെ സമയത്തിന്റെ പ്രവർത്തനമായി ട്രാക്കു ചെയ്യാൻ കഴിയും കൂടാതെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഡിഫ്ളെക്ഷൻ പ്രൊഫൈൽ ലഭിക്കും അത് സമതലം ആവുമ്പോൾ ഈ കർവിൽ നിന്ന് നമുക്ക് വേഗതയോ അല്ലെങ്കിൽ വെലോസിറ്റിയോ കൂടാതെ ഫോഴ്സും ലഭിക്കും വെലോസിറ്റി എന്നത് മറ്റൊന്നുമല്ല ഈ കർവിൻറെ സ്ലോപ്പ് ആണ് കൂടാതെ ഫോഴ്സ് k മടങ്ങ് ഡിഫ്ളെക്ഷൻ ആണ് ഇവിടെ k എന്നത് ടിപ്പിന്റെ സ്പ്രിംഗ് കോൺസ്റ്റൻസ് ആണ് രചയിതാക്കൾ കണ്ടെത്തിയത് നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ള ഒരു ഫോഴ്സ് വെലോസിറ്റി കർവ് ആണ് ഉള്ളത് എന്നാണ് അതായത് അത് കോൺകേവ് ആകൃതി ഉള്ളതാണ് അപ്പോൾ ഇത് കോൺകേവ് ഫോഴ്സ് വെലോസിറ്റി കർവ് ആണ് ഫോഴ്സ് വെലോസിറ്റി ബന്ധങ്ങളുടെ സ്വഭാവം നിർണയിക്കുന്നതിൽ വിവിധ ഘടകങ്ങൾ എങ്ങനെ സംഭാവന ചെയ്യുന്നുവെന്ന് പരിശോധിക്കുന്നതിനായി ഒരു മോഡലിംഗ് ഫോർമാലിസം വികസിപ്പിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ലളിതമായ ഒരു മോഡൽ അവതരിപ്പിച്ചു അവിടെ നിങ്ങൾക്ക് നിയന്ത്രിതമായ വ്യക്തിഗത മോണോമറുകൾ ഉണ്ട് നിങ്ങൾ മൂന്ന് മോണോമറുകളുടെ ഒരു ഫിലമെന്റ് ഉപയോഗിച്ച് ആരംഭിച്ചു പുറകിലെ ഈ ഭിത്തി ബന്ധിതമാണ് ഈ ഫിലമെന്റ് നിങ്ങൾ ഒരു ഫോഴ്സ് പ്രയോഗിക്കുന്ന ഈ ഭിത്തിക്ക് എതിർവശത്തേക്ക് പോളിമറൈസ് ചെയ്യുന്നു ബ്രാഞ്ചിംഗ് നിരക്ക് തുടങ്ങിയവയുടെ വ്യത്യസ്ത മൂല്യങ്ങളിൽ ഈ വളർച്ചയുടെ ശൃംഖല ഡൈനാമിക്സ് എന്താണെന്നു കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നമ്മൾ ചർച്ച ചെയ്ത സംഭവങ്ങൾ സാധ്യമാണ് ഫിലമെന്റ് വളർച്ച അല്ലെങ്കിൽ പോളിമറൈസേഷൻ ഡിപോളിമറൈസേഷൻ പിന്നെ ബ്രാഞ്ചിംഗ്എന്നിവ ഭിത്തിയിൽ നിന്നുള്ള ഫിലമെന്റിന്റെ ആദ്യത്തെ ദൂരം അതായത് ഈ ദൂരം ഡി ഓഫ് വാൾ ആണെന്ന് അനുമാനിക്കാം നിങ്ങൾക്ക് ദൂരത്തിൻറെ മറ്റൊരു സ്കെയിൽ ഉണ്ട് നിങ്ങൾക്കു ഒരു ഫിലമെൻറ് ഉണ്ടെങ്കിൽ ഈ ബിന്ദുവിൽ നിന്നും ഒരു പുതിയ ഫിലമെന്റ് രൂപപ്പെടുന്നതിനും ബ്രാഞ്ച് ചെയ്യുന്നതിനും മുമ്പായി നിങ്ങൾക്ക് Dbr എന്ന ഏറ്റവും കുറഞ്ഞ ദൂരം ആവശ്യമാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇതിനർത്ഥം Dbr നേക്കാൾ വലുതോ തുല്യമോ ആയ ഏതൊരു ഫിലമെന്റ് നീളം L നും നിങ്ങൾക്ക് പരിമിതമായ ബ്രാഞ്ചിംഗ് നിരക്ക് ഉണ്ടെന്നാണ് എന്നിരുന്നാലും നിലവിലുള്ള ഒരു ഫിലമെന്റ് Dbr നീളം എത്തിയാൽ ഉടനെ തന്നെ അടുത്ത ഫിലമെന്റ് ബ്രാഞ്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഇതിന്റെ അനന്തരഫലമായി നിങ്ങൾക്ക് ഒന്നിലധികം ബ്രാഞ്ചിംഗ് ഇവന്റുകൾ നടത്താം ഈ കേസിൽ എന്റെ Dbr 4 മോണോമറുകളാണെങ്കിൽ 4 മോണോമറുകൾ ആയിക്കഴിഞ്ഞാൽ സൈദ്ധാന്തികമായി തിരശ്ചീനമായി വളരുന്ന മറ്റൊരു ഫിലമെന്റ് എനിക്ക് രൂപപ്പെടുത്താൻ കഴിയും അതുപോലെ നിലവിലുള്ള ഫിലമെന്റ് വളരുന്നതിന് അനുസരിച്ച് ഇവിടെ നിന്ന് എനിക്ക് ഇതുപോലുള്ള ഒരു ഫിലമെന്റ് ബ്രാഞ്ച് ഉണ്ടാകുന്ന മറ്റൊരു സാഹചര്യം ഉണ്ടാകാം അതിനാൽ നിങ്ങൾക്ക് Kbr ന്റെ ബ്രാഞ്ചിംഗ് നിരക്ക് ഉണ്ട് അഥവാ ഇത് ബ്രാഞ്ചിംഗ് നിരക്ക് ആണ് ron പോളിമറൈസേഷൻ നിരക്ക് നൽകും k0 എന്നത് ഇൻട്രിൻസിക് പോളിമറൈസേഷൻ നിരക്കാണെങ്കിൽ നിങ്ങളുടെ മോണോമറുകളുടെ സാന്ദ്രത C ആണെങ്കിൽ k0Ce fdKBT എന്നതാണ് kon അപ്പോൾ ഇതാണ് പോളിമറൈസേഷൻ നിരക്ക് നമുക്ക് ഇവിടെ ഉള്ളത് ഭിത്തി നിയന്ത്രിക്കുന്ന ഫോഴ്സ് f നോട് ഒരു എക്സ്പോണൻഷ്യൽ ആശ്രിതത്വമാണ് കൂടാതെ d എന്നത് ഒരു മോണോമർ ചേർത്താൽ ഭിത്തി നീങ്ങുന്ന ദൂരത്തിന് തുല്യമാണ് ഈ സാഹചര്യത്തിൽ നേർ വരയിൽ ഉള്ള നിങ്ങളുടെ ഫിലമെന്റിന്റെ d മറ്റൊന്നുമല്ല മോണോമർ നീളത്തെ പ്രതിനിധീകരിക്കുന്ന ഡെൽറ്റയ്ക്ക് തുല്യമാണ് എന്നാൽ നിങ്ങൾക്ക് ഒരു കോണിൽ ഉണ്ടെങ്കിൽ d ഡെൽറ്റ കോസ് തീറ്റക്ക് Delta Cos θ തുല്യമാണ് അതിനാൽ ഈ കോൺ തീറ്റ θ 70 ഡിഗ്രിയാണ് ഈ ആക്റ്റിൻ ശൃംഖലയുടെ വളർച്ചയെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനായി നമ്മൾ മോണ്ടെ കാർലോ സിമുലേഷനുകൾ ഉപയോഗിക്കുന്നു അതായത് നമ്മൾ ഗില്ലസ്പി അൽഗോരിതം എന്ന അൽഗോരിതം ഉപയോഗിക്കുന്നു ഗില്ലസ്പി അൽഗോരിതത്തിൽ നിങ്ങൾ ചെയ്യുന്നത് എന്തെന്നാൽ നിങ്ങൾക്ക് മൊത്തം ഇവന്റുകളുടെ എണ്ണം ഉണ്ട് n പോളിമറൈസേഷൻ ഇവന്റുകൾ n ഡിപോളിമറൈസേഷൻ ഇവന്റുകൾ j ബ്രാഞ്ചിംഗ് ഇവന്റുകൾ എന്നിങ്ങനെ നിങ്ങളുടെ മൊത്തം ഇവന്റുകളുടെ എണ്ണം എന്താണെന്ന് നമുക്ക് പറയാം ഇവിടെ j n നേക്കാൾ കുറവോ അല്ലെങ്കിൽ n ന് തുല്യമോ ആണ് n എന്നത് ഫിലമെന്റുകളുടെ എണ്ണമാണ് Pm എന്ന ഇവൻറെ പ്രോബബിലിറ്റി കാണുന്നതിനായി km നെ മൊത്തം km ൻറെ തുക കൊണ്ട് ഹരിക്കുന്നു Pm kmi12njkm ഇവിടെ i എന്നത് 1 മുതൽ 2n j വരെ ആണ് ഗില്ലസ്പി അൽഗോരിതത്തിൽ സമയത്തിൻറെ ഓരോ ഘട്ടത്തിലും ഒരു ഇവന്റ് മാത്രമേ ട്രിഗർ ചെയ്യപ്പെടുകയുള്ളൂ അടുത്ത ഇവന്റ് ട്രിഗർ ചെയ്യാൻ ആവശ്യമായ സമയം ആണ് ഡെൽറ്റ t ∆t1kmln⁡ ഇവിടെ 0 നും 1 നും ഇടയിലുള്ള ഒരു ഏകീകൃത റാൻഡം സംഖ്യയാണ് R ഇത് ഉപയോഗിച്ച് നമുക്ക് അനുകരിക്കാൻ കഴിയുന്നതെന്തെന്ന് നോക്കാം ഒരു ഫോഴ്സ് f ന് വിധേയമായിരിക്കുന്ന ഭിത്തിക്കെതിരെ പോളിമറൈസ് ചെയ്യുന്നതും കൂടതെ തിരശ്ചീനവും ആയിട്ടുള്ള ഒരൊറ്റ ഫിലമെന്റിന്റെ കാര്യത്തിൽ ഫിലമെന്റ് വളർച്ചയുടെ വേഗതയ്ക്കോ അഥവാ വെലോസിറ്റിക്കോഎനിക്ക് ഇങ്ങനെ ഒരു സൂത്രവാക്യം എഴുതാൻ കഴിയും

vk0Ce fdKBT koff അപ്പോൾ ഇതാണ് വെലോസിറ്റി ഇനി എനിക്ക് സ്റ്റാൾ ഫോഴ്സ് നിർണ്ണയിക്കാൻ കഴിയും ആദ്യമായി തന്നെ നിങ്ങളുടെ വെലോസിറ്റി പ്രൊഫൈൽ ഏകദേശം ഇതുപോലെ അഥവാ എക്സ്പോണൻഷ്യൽ ആയി കാണപ്പെടും കാരണം നിങ്ങൾക്ക് e fdഎന്ന പദം ഉണ്ട് v യുടെ മൂല്യം 0 ആവുന്ന ഈ പ്രത്യേക ബിന്ദുവിൽ അഥവാ v പൂജ്യത്തിന് തുല്യം ആവുമ്പോൾ ഉള്ള ഫോഴ്സിൻറെ മൂല്യത്തെ സ്റ്റാൾ ഫോഴ്സ് എന്ന് വിളിക്കുന്നു എനിക്ക് ഈ സൂത്രവാക്യത്തിൽ v യെ 0 ത്തിന് തുല്യമായി സജ്ജമാക്കാൻ കഴിയും അപ്പോൾ എനിക്ക് vk0Ce fsdKBT koff0 എന്ന് ലഭിക്കും ഇതിൽ നിന്ന് എനിക്ക് fs ന്റെ മൂല്യം കണ്ടെത്താൻ കഴിയും ഇത് KBTdഗുണനം എന്തിൻറെയെങ്കിലും ln ആയി മാറും ഇത് നിങ്ങൾക്ക് f0 എന്ന് വിളിക്കാൻ കഴിയുന്ന ചില ഇൻട്രിൻസിക് ഫോഴ്സ് സ്കെയിലാണ് ഇതിൽ നിങ്ങൾ ഒരു ആക്റ്റിൻ മോണോമർ വ്യവസ്ഥയുടെ മൂല്യങ്ങൾ ഇട്ടു കൊടുത്താൽ നിങ്ങൾക്ക് 1 97 f0 എന്ന് ഓർഡറിൽ ഉള്ള fs ലഭിക്കും ഒരു ശൃംഖലയുടെ ഫോഴ്സ് വെലോസിറ്റി ബന്ധം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനാൽ നമുക്ക് പറയാം നിങ്ങൾക്ക് ഇവിടെ നീളത്തിൻറെ രണ്ട് സ്കെയിലുകളുണ്ട് ഒന്ന് Dwall ഇത് നിശ്ചിത ഭിത്തിയിൽ നിന്ന് ചലിക്കുന്ന ഭിത്തിയുടെ ആദ്യത്തെ സ്ഥാനമാണ് അപ്പോൾ ഈ ദൂരം Dwall ആണ് നേരത്തെ ഈ ഒരു ദൂരത്തെ ആണ് Dwall ആയി പ്രതിനിധീകരിച്ചത് എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് രണ്ടു രീതിയും സ്വീകരിക്കാം കാരണം ഫിലമെന്റിന്റെ ആദ്യത്തെ നീളം മൂന്ന് മോണോമറുകളാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഇത് പ്രശ്നമല്ല കൂടാതെ നമുക്ക് നീളത്തിൻറെ മറ്റൊരു സ്കെയിൽ ഉള്ളത് Dbr ആണ് രണ്ട് ബ്രാഞ്ചിംഗ് ബിന്ദുക്കൾ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം Dbr ആണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എനിക്ക് ഇതുപോലെ വളരുന്ന ഒരു ഫിലമെന്റ് ഉണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ ഒരു ഫിലമെന്റ് ബ്രാഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഇവിടെ നിന്ന് മറ്റൊരു ഫിലമെന്റിനെ ബ്രാഞ്ച് ചെയ്യാൻ കഴിയുന്നതിന് ആവശ്യമായ ഒരു കുറഞ്ഞ ദൂരമുണ്ട് അപ്പോൾ d എന്ന ഈ ദൂരം Dbr നേക്കാൾ വലുതോ അതിന് തുല്യമോ ആയിരിക്കണം അതിന്റെ ഭൌതിക പ്രാധാന്യം എന്താണ് സാധ്യമായ ഒരു കാരണം ഈ ബ്രാഞ്ചിംഗ് ഇവന്റ് Arp 23 എന്ന പ്രോട്ടീൻ മധ്യസ്ഥം വഹിക്കുന്നതാണ് കൂടാതെ Arp 23 ന്റെ വലുപ്പം 10 മുതൽ 20 വരെ നാനോമീറ്റർ ഓർഡറുകളിൽ ആണെന്ന് കണക്കാക്കപ്പെടുന്നു അതിനാൽ ഈ സ്ഥാനത്ത് ഒരു വലിയ പ്രോട്ടീൻ നിലകൊള്ളുന്നുണ്ടെങ്കിൽ അടുത്ത ബൈൻഡിംഗ് സോൺ ഈ ബൈൻഡിംഗ് ബിന്ദുവിൽ നിന്ന് കുറച്ച് അകലെയാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് Dbr ഉം Dwall ഉം ഉണ്ട് ഈ വ്യവസ്ഥയുള്ള ലളിതമായ ഒരു കേസ് നിങ്ങൾ സങ്കൽപ്പിക്കുക നിങ്ങൾക്ക് അറിയാവുന്ന ബ്രാഞ്ചിങിന്റെ ഒരു നിരക്ക് ഉണ്ട് k0 C തുടങ്ങിയവ നൽകിയിട്ടുണ്ട് കൂടാതെ Dwall ഉം Dbr ഉം നൽകിയിട്ടുണ്ട് Dbr ഡെൽറ്റയുടെ 100 മടങ്ങ് ആണെന്ന് വിചാരിക്കുക ഇവിടെ ഡെൽറ്റ എന്നത് മോണോമർ നീളം ആണ് കൂടാതെ Dwall എന്നത് ഡെൽറ്റയുടെ 10 മടങ്ങ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ ഭിത്തി പുറകിലെ ഭിത്തിയിൽ നിന്നും കേവലം 10 ഡെൽറ്റ ദൂരം മാത്രം അകലെയാണ് അതേസമയം ഒരു പുതിയ ബ്രാഞ്ചായി മാറുന്നതിന് മുമ്പ് ഫിലമെന്റിന്റെ നീളം 100 ഡെൽറ്റ ആയിരിക്കണം ഒരൊറ്റ ഫിലമെന്റിനായുള്ള വെലോസിറ്റി വേഴ്സസ് ഫോഴ്സ് കർവ് നോക്കുകയാണെങ്കിൽ ഇത് ബ്രാഞ്ചിംഗ് ഇല്ലാത്ത തിരശ്ചീനമായിട്ടുള്ള ഒറ്റ ഫിലമെന്റുമായി സാദൃശ്യപ്പെട്ടിരിക്കുന്നു ഈ മൂല്യം ഒരൊറ്റ ഫിലമെന്റിൻറെ fs ആണ് ഒരൊറ്റ ഫിലമെന്റിന്റെ സ്റ്റാൾ ഫോഴ്സിന് തുല്യമായ ഒരു ഫോഴ്സ് മൂല്യത്തിലാണ് ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് സങ്കൽപ്പിക്കുക ഈ ഫോഴ്സിൽ ഫിലമെന്റ് 100 ഡെൽറ്റ നീളത്തിൽ വളരാൻ സാധ്യതയില്ല അതിനാൽ ഈ കർവിൻറെ മൂല്യം അഥവാ ഈ വ്യവസ്ഥയിൽ നിങ്ങൾക്ക് സ്റ്റാൾ ഫോഴ്സിന്റെ അതേ മൂല്യമുണ്ടാകും അതിനപ്പുറവും അത് 0 ആയിരിക്കും ഭിത്തിയിലെ ഫോഴ്സ് സ്റ്റാൾ ഫോഴ്സിനേക്കാൾ കുറവാണെന്ന് വിചാരിക്കുക അതായത് നമ്മൾ ഏതാണ്ട് ഇവിടെ ആയി അല്ലെങ്കിൽ ഫോഴ്സിന്റെ ഈ മൂല്യത്തിൽ ആണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാം 100 ഡെൽറ്റയുടെ അകലത്തിൽ എത്തുന്നതുവരെ ഒരൊറ്റ ഫിലമെന്റ് ഭിത്തിയെ കൂടുതൽ കൂടുതൽ മുന്നോട്ട് തള്ളാനുള്ള സാധ്യതയുണ്ട് അതിൻറെ ഫലമായി ഒരു പുതിയ ഫിലമെന്റ് രൂപപ്പെടാം പുതിയ ഫിലമെന്റ് രൂപപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭിത്തിയുടെ എതിരെ തള്ളുന്ന 2 ഫിലമെന്റുകൾ ഉണ്ട് അതിനാൽ ആ ശൃംഖലയുടെ സ്റ്റാൾ ഫോഴ്സിൽ വർദ്ധനയുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം ഇതിന് ഇങ്ങനെ ഒരു കർവ് ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾക്ക് ഒരൊറ്റ ഫിലമെന്റിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ഫോഴ്സ് കർവ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഒരു ബ്രാഞ്ചിംഗ് ഇവന്റ് ഉണ്ടെങ്കിൽ കൂടാതെ 100 ഡെൽറ്റയ്ക്ക് തുല്യമായ Dbr 10 ഡെൽറ്റയ്ക്ക് തുല്യമായ Dwall എന്നിവയും ഉണ്ടെങ്കിൽ ഈ ഒരൊറ്റ ഫിലമെൻറ് കേസിൽ ഉള്ള ഫോഴ്സ് വെലോസിറ്റി കർവിൽ നിന്നും വ്യത്യസ്തമായ ഒരു കർവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് എൻറെ Dbr ഉം Dwall ഉം 10 ഡെൽറ്റയ്ക്ക് തുല്യമാണെന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഏത് തരം ഫോഴ്സ് കർവ് ആണ് ഞാൻ പ്രതീക്ഷിക്കുക ഈ സാഹചര്യത്തിൽ ബ്രാഞ്ചിംഗ് ദൂരം ഭിത്തിയുടെ ദൂരത്തിന് തുല്യമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഈ പ്രത്യേക പ്രതിഭാസങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു പുതിയ ഫിലമെന്റ് ബ്രാഞ്ച് ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ ഉറപ്പുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഒരു ഫോഴ്സ് വെലോസിറ്റി പ്രൊഫൈൽ ഉണ്ടാവും അത് ഇവിടെ നിന്ന് ആരംഭിക്കുകയും ഇതുപോലുള്ള ഒരു ഫോഴ്സ് വെലോസിറ്റി പ്രൊഫൈൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യും ബ്രാഞ്ചിംഗിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ബ്രാഞ്ചിംഗ് സംഭവിക്കുന്നത് സ്റ്റാൾ ഫോഴ്സിനെ കൂടുതൽ കൂടുതൽ ഉയർന്ന ഫോഴ്സാക്കി മാറ്റുന്നു നിങ്ങളുടെ വ്യവസ്ഥയ്ക്ക് വിവിധ ജ്യാമിതികൾ നൽകാംഇത്തരത്തിലുള്ള ഒരു ജ്യാമിതി ഉള്ള കേസ് പറയാം അവിടെ നിങ്ങൾക്ക് രണ്ട് ഫിലമെന്റുകൾ ഉണ്ട് ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് മൂന്നാമതൊരു ഫിലമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ സ്റ്റാൾ ഫോഴ്സ് വീണ്ടും വർദ്ധിക്കുന്നു ഇപ്പോൾ ഈ പ്രത്യേക കേസിൽ എന്തുകൊണ്ടാണിങ്ങനെ എന്ന് നോക്കാം 100 ഡെൽറ്റയ്ക്ക് തുല്യമായ Dbr 10 ഡെൽറ്റയ്ക്ക് തുല്യമായ Dwall ഉം ഉള്ള ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഈ പ്രത്യേക കേസിൽ നിന്നും വ്യതിചലിച്ചത് നിങ്ങൾ ഭിത്തിയുടെ സ്ഥാനം സമയത്തിന്റെ പ്രവർത്തനമായി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇത് സമയത്തിന്റെ പ്രവർത്തനമായി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വിശാലമായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാം ഈ ദൈർഘ്യം 10 ഡെൽറ്റയ്ക്ക് തുല്യമാണെന്ന് കരുതുക അല്ലെങ്കിൽ 15 ഡെൽറ്റ അത്തരം സന്ദർഭങ്ങളിൽ ഒന്നിലധികം തവണ അല്ലെങ്കിൽ ഓരോ തവണയും ഭിത്തിയുടെ സ്ഥാനം ബ്രാഞ്ചിംഗ് ആരംഭിക്കുന്ന ഈ ദൂരത്തിനപ്പുറമാണെന്ന് നിങ്ങൾക്ക് കാണാം ഓരോ തവണയും ഈ ഇവന്റുകളിൽഅതായത് ഭിത്തിയുടെ സ്ഥാനം ബ്രാഞ്ചിംഗ് ദൂരത്തിനപ്പുറത്തേക്ക് തള്ളിവിടുന്ന ഓരോ തവണയും അവിടെ ഒരു പുതിയ ബ്രാഞ്ചിംഗ് ഇവന്റ് ഉണ്ട് നിങ്ങൾക്ക് പരിമിതമായ പ്രോബബിലിറ്റി ഉള്ളതിനാൽ ബ്രാഞ്ച് രൂപപ്പെടും അല്ലെങ്കിൽ രൂപപ്പെടാം ബ്രാഞ്ച് രൂപപ്പെട്ടുകഴിഞ്ഞാൽ സ്റ്റാൾ ഫോഴ്സ് വർദ്ധിക്കും കാരണം ഇപ്പോൾ ഭിത്തിക്ക് നേരെ തള്ളുന്ന രണ്ട് ഫിലമെന്റുകൾ ഉണ്ട് ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഏറ്റക്കുറച്ചിലുകളെ ആശ്രയിച്ചുള്ള പ്രതിഭാസങ്ങളെ പൂർണ്ണമായും അടിച്ചമർത്തുകയാണെന്ന് വിചാരിക്കുക ഇത് ഏറ്റക്കുറച്ചിലുകൾ സ്റ്റാൾ ഫോഴ്സിനെ നിർണ്ണയിക്കുന്നതിന് ഒരു ഉദാഹരണമാണിത് ഫിലമെന്റുകളുടെയോ ബ്രാഞ്ചിംഗിന്റെയോ വളർച്ച നിങ്ങൾ പൂർണ്ണമായും തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക കേസിലെ ഏറ്റക്കുറച്ചിലുകൾ പോലും അഥവാ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ പോലും അവ ഈ പ്രത്യേക കേസിനു താഴെയായിരിക്കുമെന്ന് നിങ്ങൾ ഉറപ്പാക്കണം ഈ സംഭവത്തിൽ ബ്രാഞ്ചിംഗ് ഉണ്ടാകില്ല കാരണം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ പോലും അവ ബ്രാഞ്ചിംഗ് ദൂരം Dbr നെ മറികടക്കുന്നില്ല ഭിത്തിയുമായി സ്പർശിക്കുന്ന ഫിലമെന്റുകളുടെ എണ്ണത്തെ ഫോഴ്സിന്റെ പ്രവർത്തനമായി പ്ലോട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഏറ്റക്കുറച്ചിലുകളുടെ പ്രഭാവം മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ എന്റെ ഫോഴ്സ് 0 ആണെങ്കിൽ ഞാൻ ഒരൊറ്റ ഫിലമെന്റിൽ നിന്നാണ് ആരംഭിക്കുന്നത് 0 ഫോഴ്സിനെതിരെ വളരാൻ കഴിയുന്ന ഒരൊറ്റ ഫിലമെന്റ് ഉള്ളതിനാൽ ആ ഫിലമെന്റ് ഭിത്തിയെ കൂടുതൽ കൂടുതൽ മുന്നോട്ട് തള്ളുന്നു നിങ്ങളുടെ ബ്രാഞ്ചിംഗ് ദൂരത്തിന്റെ മൂല്യം എത്ര തന്നെ ആയാലും 0 ഫോഴ്സിനു താഴെ ഒരു ബ്രാഞ്ച് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽപ്പോലും ആ ബ്രാഞ്ച് ഒരിക്കലും ഭിത്തിയെ സ്പർശിക്കില്ല അതിനാൽ സ്പർശിക്കുന്ന ഫിലമെന്റുകളുടെ എണ്ണം ഒന്ന് തന്നെയായി തുടരും എന്നാൽ നിങ്ങൾ ഫോഴ്സ് വർദ്ധിപ്പിക്കുമ്പോൾ സ്പർശിക്കുന്ന ഫിലമെന്റുകളുടെ എണ്ണത്തിൽ വർദ്ധനവ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാം കാരണം ഈ ഫിലമെന്റ് മതിലിനെ തള്ളുക ആണെങ്കിൽ കൂടിയും അത് വളരെ സാവധാനത്തിലാണ് തള്ളുക അതിനാൽ യഥാർത്ഥത്തിൽ ബ്രാഞ്ചിംഗ് ഫിലമെന്റ് 0 ഫോഴ്സ് ഉള്ള അവസ്ഥയിൽ വളരുകയും തുടർന്ന് തിരശ്ചീന ഫിലമെന്റിനു ഒപ്പം എത്തുകയും ചെയ്യും അത്യന്തികമായി എല്ലാ കേസുകളിലും നിങ്ങൾ ഒരു താഴ്ച കാണും അതിനാൽ ഇത് മറ്റൊരു കേസിൻറെ സ്റ്റാൾ ഫോഴ്സുമായി യോജിക്കുന്നു നിങ്ങൾ ബ്രാഞ്ചിംഗ് ദൂരം വർദ്ധിപ്പിക്കുമ്പോൾ ഈ വളവുകൾ മുകളിലേക്ക് മുകളിലേക്ക് പോകുന്നത് നിങ്ങൾ കാണും ഏറ്റവും കുറഞ്ഞ Dbr മൂല്യം Dbr 1 പിന്നീട്Dbr 2 Dbr 3 എന്നിങ്ങനെ പറയാം നിങ്ങൾ Dbr ന്റെ ഏറ്റവും ചെറിയ മൂല്യം ഉപയോഗിക്കുകയും തുടർന്ന് നിങ്ങൾ Dbr ന്റെ മൂല്യങ്ങൾ വർധിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കർവുകൾ മുകളിലേക്ക് മുകളിലേക്ക് മാറും ഈ വ്യവസ്ഥ എങ്ങിനെ മാറുമെന്നും ഈ വ്യവസ്ഥയുടെ സ്റ്റാൾ ഫോഴ്സിനെ Dbr നെയും Dwall നെയും ആശ്രയിച്ചിരിക്കുന്ന ബ്രാഞ്ചിംഗ് ശൃംഖലയുടെ രൂപകല്പന എങ്ങനെ നിർണ്ണയിക്കുന്നുവെന്നും നിങ്ങൾ കാണുന്നു ഈ ശൃംഖലയുടെ വളർച്ചാ പ്രൊഫൈൽ എന്തായിരിക്കും ഞാൻ ഈ വ്യവസ്ഥയിലെ മൊത്തം ഫിലമെന്റുകളുടെ എണ്ണം നിയന്ത്രിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക N ഫിലമെൻറ് ഈ വ്യവസ്ഥയിലെ മൊത്തം ഫിലമെന്റുകളുടെ എണ്ണമാണ് ഇത് ഫോഴ്സ് വെലോസിറ്റി കർവ് ആണ് ഇത് ഒരൊറ്റ ഫിലമെന്റിന്റെ സ്റ്റാൾ ഫോഴ്സാണ് നിങ്ങൾ കാണുന്നത് എന്തെന്നാൽ സ്റ്റാൾ ഫോഴ്സ് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ക്ഷമിക്കണം ഫിലമെന്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് തുടക്കത്തിൽ ഇതുപോലെയുള്ളവയും എന്നാൽ പിന്നീട് ഇതു പോലെയും ഉള്ള കർവുകൾ ഉണ്ടാകും ഈ ദിശയിൽ നിങ്ങൾ ഫിലമെന്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് പ്രൊഫൈലിൽ നിന്ന് നിങ്ങൾക്ക് കാണാനാവുന്നത് എന്തെന്നാൽ Nfl ന്റെ ഒരു നിശ്ചിത മൂല്യത്തിനപ്പുറം ഫിലമെന്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കർവ് കോൺകേവ് ആവുന്നു ഏറ്റവും വലതുവശത്തുള്ളവ കോൺകേവ് ആണ് എന്നാൽ ഇടതുവശത്തേക്ക് ഉള്ളവ കോൺവെക്സ്സും ഫിലമെന്റുകളുടെ എണ്ണം കൂട്ടുന്നത് ഫോഴ്സ് വെലോസിറ്റി കർവ് കൂടുതൽ കൂടുതൽ കോൺകേവ് ആക്കും അതിനർത്ഥം വിപുലമായ ശ്രേണിയിലുള്ള ഫോഴ്സുകളുടെ സാന്നിധ്യത്തിൽ സെല്ലുകൾക്ക് ഫോഴ്സിനെ ആശ്രയിക്കാത്ത രീതിയിൽ തള്ളാൻ ആവും നിങ്ങൾ ഈ വ്യവസ്ഥയിലെ ഫിലമെന്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ അഥവാ സ്പർശിക്കുന്ന ഫിലമെന്റുകളുടെ എണ്ണം ഫോഴ്സുകളുടെ പ്രവർത്തനമായി ബന്ധപ്പെടുത്തി വർദ്ധിപ്പിക്കുമ്പോൾ Nfl ന്റെ മൂല്യം വർദ്ധിക്കുന്നതിന് അനുസരിച്ചാണ് ഇത് ഫിലമെന്റുകളുടെ എണ്ണം കൂട്ടുന്നത് സ്പർശിക്കുന്ന ഫിലമെന്റുകളുടെ എണ്ണത്തിലും വർദ്ധനവിന് ഇടയാക്കും എന്നാൽ ഒരു നിശ്ചിത സ്റ്റാൾ ഫോഴ്സിനപ്പുറം ഇതിൽ കുത്തനെയുള്ള കുറവുണ്ടെന്ന് നിങ്ങൾ കാണുന്നു ആദ്യത്തെ ഫിലമെന്റ് തന്നെ വർദ്ധിക്കാത്തതിനാൽ അഥവാ ബ്രാഞ്ച് ചെയ്യാത്തതിനാൽ ഇത് ശാഖകളാകില്ല അതോടുകൂടി ഞാൻ ഇവിടെ നിർത്തുന്നു അവസാനിപ്പിക്കുന്നതിനു മുൻപായി രണ്ട് പ്രധാന സന്ദേശങ്ങൾ ഉണ്ട് Dbr ഉംDwall ഉം തമ്മിലുള്ള ആപേക്ഷിക അനുപാതം ഫോഴ്സ് വെലോസിറ്റി കർവുകളുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ സന്ദേശം രണ്ടാമത്തേത് ഫിലമെന്റ് ക്രമീകരണവും പ്രധാനമാണ് എന്നതാണ് കാരണം നമുക്ക് ഈ വ്യവസ്ഥയിൽ മൂന്ന് ഫിലമെന്റുകൾ മാത്രമേ ഉള്ളൂവെങ്കിലും ഇത് ഒരു പ്രത്യേക ജ്യാമിതിയാണ് ഇത് മറ്റൊരു ജ്യാമിതിയാണ് അതിനാൽ ഫിലമെന്റുകളുടെ ജ്യാമിതി എന്താണെന്നതിനെ ആശ്രയിച്ച് ഫോഴ്സ് വെലോസിറ്റി കർവുകളുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകും